അതിനാൽ ഇപ്പോൾ നമുക്ക് ഉപരിതലവും വോളിയം ഇന്റഗ്രൽ സമീപനങ്ങളും തമ്മിലുള്ള താരതമ്യത്തിലേക്ക് പോകാം അതായത് പ്രശ്നം അതേപടി തുടരുന്നു എനിക്ക് ഇവിടെ ചില വസ്തുക്കൾ V2 ഉണ്ടായിരുന്നു ചിലത് ഇവിടെയുണ്ട് ഇതാണ് എന്റെ നിലവിലെ ഉറവിടം അപ്പോൾ ഞങ്ങൾ ആദ്യം ഉപരിതല സമീപനത്തിൽ തുടങ്ങി എന്താണ് അതിനാൽ ഞങ്ങൾ എല്ലാം വീണ്ടും ചെയ്യാൻ പോകുന്നില്ല വ്യക്തമായും വ്യുൽപ്പന്നത്തിൽ പാതകൾ എവിടെയാണ് വ്യതിചലിക്കുന്നതെന്ന് ആശയപരമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഉപരിതല സമീപനത്തിൽ എന്താണ് സംഭവിച്ചത് ഞങ്ങൾ ആദ്യം ചെയ്തത് എന്താണ് ഓരോ പ്രദേശത്തിനും വലതുവശത്തുള്ള ഹെൽംഹോൾട്ട്സ് സമവാക്യം ഞങ്ങൾ എഴുതി അതിനാൽ ഓരോ പ്രദേശത്തിനും ഞാൻ അങ്ങനെ എഴുതി നമുക്ക് അതിനെ വിളിക്കാം ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് ഞാൻ ബ്രാക്കറ്റ് r വ്യക്തമായി എഴുതാത്ത സ്ഥലത്താണ് ഞങ്ങൾ മറ്റെന്താണ് ചെയ്തത് ഓരോ പ്രദേശത്തിനും ഈ Helmholtz സമവാക്യം എഴുതുന്നതിനു പുറമേ എനിക്ക് ആവശ്യമായ മറ്റൊരു കാര്യം ഓരോ പ്രദേശത്തിനും ഗ്രീനിന്റെ പ്രവർത്തനമാണ് അതിനാൽ പിന്നെ ഈ രണ്ട് സമവാക്യങ്ങളും വെച്ച് ഞാൻ എന്ത് ചെയ്യും അവയെ കുറച്ചുകൊണ്ട് ഞാൻ ഗുണിച്ചു പക്ഷേ ഞാൻ ഒരിക്കലും വോളിയം 1 ന്റെ റീജിയൻ 1 ന്റെ സമവാക്യങ്ങളെ വോളിയം 2 ന്റെ സമവാക്യങ്ങളുമായി കൂട്ടിച്ചേർത്തില്ല അവ പ്രത്യേകം പരിഹരിച്ചതുപോലെ തുടർന്ന് ഞാൻ വെക്റ്റർ കാൽക്കുലസിന്റെ ചില സിദ്ധാന്തങ്ങൾ പ്രയോഗിച്ചു അത് ഒരു വോളിയം ഇന്റഗ്രലിനെ ഒരു ഉപരിതല ഇന്റഗ്രലാക്കി മാറ്റി അങ്ങനെയാണ് ഉപരിതല എസ് എസ് അനന്തത എന്നിവ ചിത്രത്തിൽ വന്നത് S ഇൻഫിനിറ്റിയുടെ മേലുള്ള ഇന്റഗ്രലുകൾ അപ്രത്യക്ഷമാകുന്നു S വലതുവശത്ത് അവിഭാജ്യമായി ഞാൻ അവശേഷിക്കുന്നു അതിനാൽ ഓരോ പ്രദേശത്തിനും ഓരോ സമവാക്യവും പ്രത്യേകം പരിഹരിച്ചു അതാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ വേരിയബിളുകൾ ഞങ്ങൾ പരിഹരിച്ച വേരിയബിളുകളാണ് എസ് വലതുവശത്തുള്ള E ടാൻജൻഷ്യലിനും H ടാൻജെൻഷ്യലിനും ഞങ്ങൾ പരിഹരിച്ചു ഒടുവിൽ ഞങ്ങൾ അത് പരിഹരിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഹ്യൂഗൻസ് തത്വം ശരിയായി ഉപയോഗിക്കുന്നു എവിടെയും പ്രഥലം കണ്ടെത്തുന്നതിനായി ആയതിനാൽ ഇത് സർഫെസ് ഇന്റഗ്രൽ അപ്രോചിന്റെ റിവിഷൻ പോലെയാണ് അതായത് ഇത് പുതിയതല്ല ഇനി നമ്മൾ വോളിയം ഇന്റർഗ്രൽ അപ്രോച്ചിലേക്ക് പോകുമ്പോൾ തുടക്കം എന്തായിരിക്കും ആദ്യ സ്റ്റെപ്പ് രണ്ടിലും ഒന്ന് തന്നെ ആയിരിക്കുമോ ശെരി അതിനാൽ നമ്മൾ എന്താണോ അവിടെ ചെയ്തത് അത് നമ്മൾ ഇവിടെ എഴുതുന്നു എന്നാൽ ഇവിടെ ഉദാഹരണത്തിന് എനിക്ക് ഓരോ പ്രദേശത്തുനിന്നും രണ്ട് സമവാക്യങ്ങൾ ലഭിച്ചു ഇവിടെ എന്താണ് വ്യത്യാസം ഞാൻ അത് എങ്ങനെ ചെയ്തു എന്താണ് ആരംഭ പോയിന്റ് തന്നെ അൽപ്പം വ്യത്യസ്തമായി മാറിയത് എന്തായിരുന്നു രണ്ട് കേസുകൾ ഒബ്ജക്റ്റിന് അപ്പുറത്തും അല്ലാതെയും ഞങ്ങൾ വോള്യം ഒന്ന് വോളിയം രണ്ട് എന്നിവ പരിഗണിച്ചില്ല ഒബ്ജക്റ്റിനൊപ്പവും അല്ലാതെയും പരിഗണിക്കുന്നത് ഞങ്ങൾ പരിഗണിക്കുന്നു അതിനാൽ അത് മാറി അപ്പോൾ ഇത് വസ്തുവിന്റെ കൂടെയും അല്ലാതെയും ആണ് പിന്നെ ഞാൻ എന്താണ് ചെയ്തത് നിലവിലെ ഉറവിടം ഞാൻ ഇല്ലാതാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു സമവാക്യം ലഭിച്ചു ഇതിൽ ഞാൻ ഗ്രീൻ ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടതുണ്ടോ വിദ്യാർത്ഥി ഒരിക്കൽ എനിക്ക് ലഭിച്ചു ഒരിക്കൽ എനിക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനും സൊല്യൂഷൻ 2ഉം കിട്ടിയപ്പോൾ അത് ഗ്രീൻ ഫംഗ്ഷൻ ഒരു കൺവ്യൂഷൻ എന്ന നിലയിലാണ് എഴുതിയത് എന്നാൽ ഏത് ഗ്രീനിന്റെ ഫംഗ്ഷനാണ് Greens Function ഞാൻ ഉപയോഗിക്കേണ്ടത് വിദ്യാർത്ഥി 1 ഒരു വസ്തുവും ശരിയായ വാക്വം ഇല്ലാത്ത ഒരെണ്ണം ഞാൻ ഈ രണ്ട് സമവാക്യങ്ങൾ കുറച്ചപ്പോൾ ഞാൻ ഇത് ഇതുപോലെയാണ് സൂക്ഷിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞാൻ ഇവിടെ സൂക്ഷിച്ചു തുടർന്ന് ഇവിടെയുള്ള ഒരു കൂട്ടം പദങ്ങൾക്ക് തുല്യമാണ് അതിനാൽ ഇത് പരിഹരിക്കാൻ ഞാൻ ഏത് ഗ്രീനിന്റെ പ്രവർത്തനമാണ് ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ ശരിയായി ഉപയോഗിച്ചത് അതിനാൽ ഈ വ്യക്തിക്കുള്ള പരിഹാരം എനിക്കറിയാമെങ്കിൽ ഈ ഞാൻ ഈ പരിഹാരം ഗ്രീൻ ഫംഗ്ഷൻ വലതുവശത്തുള്ള നിർബന്ധിത പ്രവർത്തനത്തിന്റെ ഒരു പരിണാമമായി മാറുന്നു അതിനാൽ സമീപനത്തിലെ നേരിയ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു തുടക്കത്തിൽ തന്നെ എഴുതാൻ തുടങ്ങി ഉപരിതല അവിഭാജ്യ സമീപനത്തിൽ ഞാൻ ഓരോ പ്രദേശത്തിനും വെവ്വേറെ പരിഹരിച്ച് പ്രത്യേകം കുറച്ചു ഇവിടെ മുഴുവൻ വോള്യവും ഒബ്ജക്റ്റ് ഉപയോഗിച്ചും അല്ലാതെയും കണക്കാക്കുകയും വ്യത്യാസം എടുക്കുകയും തുടർന്ന് ഞാൻ എന്റെ ഗ്രീൻ ഫംഗ്ഷൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ രണ്ട് സാഹചര്യങ്ങളിലും ഗ്രീനിന്റെ പ്രവർത്തനം ഉപയോഗിക്കുന്നു ഉപരിതല ഇന്റഗ്രലിൽ എനിക്ക് രണ്ട് ഗ്രീൻ ഫംഗ്ഷൻ ഉണ്ട് അതിനാൽ ഒരാൾക്ക് വേണ്ടി ഒന്ന് വോളിയം ഇന്റഗ്രൽ സമീപനത്തിൽ എനിക്ക് ഒരു ഗ്രീൻ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും പറയാൻ കഴിയും അതിനാൽ ഒരു കാര്യം ഉപരിതല അവിഭാജ്യ സമീപനത്തിൽ അവ സ്ഥിരതയുള്ളതായിരുന്നു അതിനാൽ അവ ഏകതാനമായ വസ്തുക്കൾക്കായിരുന്നു അതേസമയം എനിക്ക് ഇവിടെ ആ പരിമിതി ഉണ്ടായിരുന്നോ അവകാശമില്ല ഇവിടെ ഞാൻ യഥാർത്ഥത്തിൽ സ്ഥലത്തിന്റെ പ്രവർത്തനമായിരുന്നു അതിനാൽ ഈ രണ്ട് സമീപനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമുള്ള രണ്ട് വ്യത്യാസങ്ങൾ ഇവയാണ് ഇവിടെ പുതിയതായി ഒന്നുമില്ല ഞങ്ങൾ ഇതിനകം ചെയ്ത കാര്യങ്ങൾ സംഗ്രഹിക്കുന്നു വ്യത്യാസങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എനിക്ക് ദൂരെയുള്ള ഫീൽഡ് കണ്ടെത്താൻ ആഗ്രഹിക്കുമ്പോൾ ഉപരിതല അവിഭാജ്യ സമീപനത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ ഹ്യൂഗൻസ് തത്വം ശരിയാണ് അതിനാൽ ഇവിടെ ആർ പ്രൈം എന്ന ഫീൽഡ് സംഭവ ഫീൽഡിന്റെ ആകെത്തുകയാണ് എഴുതിയിരിക്കുന്നത് ഈ പദം ഇവിടെ വീണ്ടും ഒരു ഉപരിതല അവിഭാജ്യമാണ് ആ ഉപരിതല അവിഭാജ്യത്തിൽ ഉൾപ്പെടുന്നതും ഉപരിതലത്തിലെ E tan H ടാൻ ആയതുമാണ് അതിനാൽ ഇവ എന്റെ ഹ്യൂഗൻസ് തത്വത്തിലെ എന്റെ ദ്വിതീയ ഉറവിടങ്ങളാണ് അതിനാൽ ഞങ്ങൾ രണ്ട് തുല്യത തത്വങ്ങൾ പഠിച്ചു ഇത് ഏത് തുല്യതാ തത്വമാണ് ഞങ്ങൾ ഉപരിതല തുല്യത തത്വം പഠിച്ചു വിദ്യാർത്ഥി വോളിയം വോളിയം തുല്യത തത്വംഅതിനാൽ ഇതാണ് വിദ്യാർത്ഥി അങ്ങനെ വ്യക്തമായും ഉപരിതല തുല്യത തത്വം കാരണം ഉപരിതലത്തിലെ വൈദ്യുതധാരകളോ ടാൻജൻഷ്യൽ ഫീൽഡുകളോ ഉള്ള വൈദ്യുതധാരകളുടെ ഒരു കൂട്ടം ഞാൻ മാറ്റിസ്ഥാപിച്ചു അതിനാൽ ഇത് ഒരു ഉപരിതല തുല്യതയുടെ ഉത്തമ ഉദാഹരണമാണ് വലത് വോളിയം ഇന്റഗ്രൽ സമവാക്യത്തിന്റെ കാര്യത്തിൽ വീണ്ടും എനിക്ക് ചില ഘട്ടങ്ങളിൽ ഫീൽഡ് ഉണ്ട് സംഭവ ഫീൽഡും ചിതറിക്കിടക്കുന്ന ഫീൽഡും ഇപ്പോൾ ഈ ഇന്റഗ്രൽ അവസാനിച്ചു അതിനർത്ഥം ഞാൻ വസ്തുവിലേക്ക് പോകുന്നു അപ്പോൾ ഞാൻ വസ്തുവിനോട് എന്താണ് ചെയ്തത് ഞാൻ ഈ ഒബ്ജക്റ്റിനെ ഇത്തരത്തിലുള്ള ഗ്രേഡ് ഉപയോഗിച്ച് മാറ്റി ഓരോ ഗ്രിഡ് പോയിന്റിലും എനിക്ക് തുല്യമായ കറന്റ് ഉണ്ട് അതിനാൽ ഈ അവിഭാജ്യഘടകം ഈ പ്രവാഹങ്ങളുടെ ആകെത്തുകയാണ് പറയുന്നത് ഇവിടെ നിലവിലുള്ള ശക്തി എന്താണ് ശരിയാണ് ഞങ്ങൾ നേരത്തെ ആരംഭിച്ച വോളിയം തുല്യത തത്വത്തിന്റെ മികച്ച ഉദാഹരണമാണിത് കോഴ്സിൽ പിന്നീട് ആന്റിന പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഇതിനെ തുല്യമായ വോളിയം കറന്റ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം വ്യക്തമാകും എന്നാൽ വോളിയത്തിൽ ശരിക്ക് മുകളിൽ സംഗ്രഹിക്കുന്ന എന്തോ ഒന്ന് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വോളിയം തുല്യത തത്വമാണ് നിങ്ങൾക്ക് ഇവിടെ വേറിട്ടുനിൽക്കുന്ന മറ്റേതെങ്കിലും കാര്യമാണോ ഏതാണ് മൂല്യനിർണ്ണയം ചെയ്യാൻ ഞങ്ങൾ കൂടുതലോ കുറവോ സമയമെടുക്കുക വിദ്യാർത്ഥി ആദ്യത്തേത് ആദ്യത്തേത് വ്യക്തമായും ശരിയാണ് അതിനാൽ ഉപരിതലം വോളിയത്തേക്കാൾ വേഗതയുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ നിരീക്ഷക സ്ഥാനം മാറ്റുമ്പോഴെല്ലാം എനിക്ക് ഈ അവിഭാജ്യ വലത് മുഴുവൻ വീണ്ടും കണക്കാക്കേണ്ടതുണ്ട് കാരണം r പ്രൈം മാറ്റുമ്പോൾ ഈ ഗ്രീനിന്റെ പ്രവർത്തനം മാറുന്നു അതിനാൽ മുഴുവൻ ഇന്റഗ്രലും ശരിയായി മാറുന്നു അതിനാൽ എനിക്ക് ഒരു പ്രതലത്തിലൂടെ മൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട് എന്നാൽ ആദ്യത്തേത് ഞാൻ ഒരു വരി വലതുവശത്ത് വിലയിരുത്തണം അതിനാൽ ഉപരിതലം വോളിയത്തേക്കാൾ വേഗതയുള്ളതാണ് പക്ഷേ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വൈവിധ്യമാർന്ന വസ്തു ഉള്ള സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കാരണങ്ങളില്ലാതെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല വിദ്യാർത്ഥി ഹലോ സർ വിദ്യാർത്ഥി ഏത് ഗ്രീനിന്റെ പ്രവർത്തനമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വാക്വമിനുള്ള ഈ ഗ്രീനിന്റെ പ്രവർത്തനം വിദ്യാർത്ഥി വാക്വം വേണ്ടി വാക്വം എന്തുകൊണ്ടെന്നാൽ ഈ രണ്ട് സമവാക്യങ്ങളും ഈ സമവാക്യത്തിലേക്ക് മസാജ് ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് ഇടത് വശത്ത് ചതുരാകൃതിയിലുള്ള ഒരു കെ അതിനാൽ ഇത് എന്റെ പക്കലുള്ളതും ഗ്രീനിന്റെ പ്രവർത്തനവും തമ്മിലുള്ള ഒരേപോലെയായിരിക്കണം ഓപ്പറേറ്റർ സമവാക്യം അതിനാൽ അത് ഇവിടെയുള്ളതിനാൽ ഇവിടെയുണ്ട് പ്രവർത്തനമാണെന്ന് ഞങ്ങൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഗ്രീൻ ഫംഗ്ഷൻ ശരിയായി കണക്കാക്കുന്നതിൽ ഇത് എനിക്ക് വലിയ പ്രയോജനം ചെയ്യില്ല അതിനാൽ ഇപ്പോൾ വിമാനക്കപ്പലുകൾക്കും മറ്റും റഡാർ ക്രോസ് സെക്ഷനുകൾ കണക്കാക്കുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ അറിയാമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് സങ്കൽപ്പിക്കുക അതിനാൽ നിങ്ങൾ എഴുതിയ ഈ കോഡ് നിങ്ങൾക്ക് ലഭിച്ചു അത് ബഹിരാകാശത്തെ ഏത് ഘട്ടത്തിലും ഫീൽഡ് കണക്കാക്കുന്നു